ഫിസിക്കൽ സിന്തെസിസ് ക്കുറിച്ചുള്ള ചർച്ച നമ്മൾ തുടരുന്നു നമ്മുടെ അവസാന പ്രഭാഷണത്തിൽ നമ്മൾ 2 ടെക്നിക്കുകളെക്കുറിച്ച് സംസാരിച്ചതായി ഓർക്കുന്നുവെങ്കിൽ ഗേറ്റ് സൈസിങ്ങ്ങും ബഫറിംഗും ബഫറിംഗ് ഇന്റർകണക്ഷൻ ലൈനുകൾ അവതരിപ്പിക്കുന്നു ഇപ്പോൾ അതിനാൽ ചർച്ച തുടരാം ഈ പ്രഭാഷണത്തിലെ മൂന്നാമത്തെ വിശാലമായ സമീപനമാണ് ഞങ്ങൾ നോക്കുന്നത് ലിസ്റ്റ് റീസ്ട്രക്ച്ചറിങ് അതിനാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏതെങ്കിലും വിധത്തിൽ സർക്യൂട്ട് നെറ്റ്ലിസ്റ്റ് പരിഷ്ക്കരിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുന്ന നിരവധി മാർഗങ്ങളുണ്ട് ഇപ്പോൾ നെറ്റ്ലിസ്റ്റ് ഏതെങ്കിലും വിധത്തിൽ പരിഷ്ക്കരിക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ലക്ഷ്യം സമയം മെച്ചപ്പെടുത്തുക എന്നതാണ് എന്നാൽ സ്വാഭാവികമായും ഈ പരിഷ്ക്കരണത്തിലൂടെ ഈ സർക്യൂട്ട് പ്രവർത്തനം മാറ്റേണ്ടതില്ലെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഈ സർക്യൂട്ട് പ്രവർത്തനം പരിഷ്ക്കരിക്കരുത് പക്ഷേ ചില അധിക ഗേറ്റുകൾ ആവശ്യമായി വന്നേക്കാം ചില അധിക കണക്ഷനുകൾ ചേർക്കേണ്ടതായി വന്നേക്കാം അതിനാൽ ഞങ്ങൾ ഇവിടെ നിരവധി സാങ്കേതിക വിദ്യകൾ കാണും ഈ ലിസ്റ്റ് സമ്പൂർണ്ണമല്ല ചില സാധാരണ നെറ്റ്ലിസ്റ്റ് പരിഷ്ക്കരണ സാങ്കേതികവിദ്യകൾ ഇനിപ്പറയുന്നവയാണ് ക്ലോണിംഗ് നാമം സൂചിപ്പിക്കുന്നത് പോലെ ഞങ്ങൾ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ക്ലോണിംഗ് അല്ലെങ്കിൽ തനിപ്പകർപ്പ് നടത്തുന്നു ഞങ്ങൾ ഗേറ്റുകൾ തനിപ്പകർപ്പാക്കുന്നു നമുക്ക് ഫാനിൻ അല്ലെങ്കിൽ ഫാനൌട് ട്രീ നെറ്റ്വർക്കുകൾ പുനർരൂപകൽപ്പന ചെയ്യാം നമുക്ക് ചില ഗേറ്റുകളുടെ കമ്മ്യൂട്ടേറ്റീവ് പിൻകൾ മാറ്റാം ചില ലളിതമായ ബൂലിയൻ ആൾജിബ്ര നിയമങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചില ഗേറ്റുകൾ വിഘടിപ്പിക്കാം ഇവിടെ വീണ്ടും ബൂളിയൻ ആൾജിബ്ര നിയമങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചില സർക്യൂട്ടുകൾ പുനസംഘടിപ്പിക്കാം അതിനാൽ നമുക്ക് അവയെ വ്യത്യസ്ത രീതിയിൽ നടപ്പിലാക്കാൻ കഴിയും അങ്ങനെ സമയ സവിശേഷതകൾ മെച്ചപ്പെടും നമുക്ക് ഓരോന്നായി കാണാം ക്ലോണിംഗ് ക്ലോണിംഗ് സൂചിപ്പിക്കുന്നത് പോലെ നമുക്ക് ചിലപ്പോൾ ഒരു ഗേറ്റ് തനിപ്പകർപ്പാക്കേണ്ടതായി വന്നേക്കാം അതിനാൽ ഞങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് സംസാരിക്കുന്നതെന്ന് ആദ്യം അവബോധപൂർവ്വം നിങ്ങളോട് പറയട്ടെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം നമുക്ക് ഒരു ഗേറ്റ് ഉണ്ടെന്ന് പറയാം ഈ ഗേറ്റ് ഔട്ട്പുട്ട് ഒന്നിലധികം സ്ഥലങ്ങളിലേക്ക് പോകും അതിനാൽ ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ക്ലോൺ ചെയ്യുന്നതിലൂടെ ഇൻപുട്ടുകൾ A B ആണെന്ന് നമുക്ക് പറയാം അതിനാൽ ഞങ്ങൾ പറയുന്നു ഈ ഗേറ്റ് ആവർത്തിക്കുന്നു അതേ ഗേറ്റ് ഞങ്ങൾ രണ്ടുതവണ ആവർത്തിക്കുന്നു അതിനാൽ ഇവിടെ അത് ഫാനൌട്ട് പോയിന്റുകളിലേക്ക് പോകുന്നു പക്ഷേ ഇവിടെ ഞങ്ങൾ ഈ ഔട്ട്പുട്ട് ഒരു സബ്സെറ്റിലേക്കും ഈ ഔട്ട്പുട്ട് മറ്റ് സബ്സെറ്റിലേക്കും അയയ്ക്കുന്നു അതിനാൽ ഒരുപക്ഷേ ഞങ്ങൾ ഇവയിലുടനീളം ഔട്ട്പുട്ട്ടുകൾ വിഭജിക്കുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ക്ലോണിംഗ് ആവശ്യമായി വരുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന 2 വിശാലമായ കാരണങ്ങളുണ്ട് ഒന്നാമതായി ഈ സാഹചര്യത്തിൽ ധാരാളം ഫാനൌട്ട് കണക്ഷനുകൾ ഉണ്ടാകാം അതായത് നിങ്ങൾക്ക് ലോഡ് കപ്പാസിറ്റൻസിന്റെ വലിയ മൂല്യം ഉണ്ടായിരിക്കാം അതായത് ഈ ഗേറ്റ് ലോഡ് കപ്പാസിറ്റൻസ് നയിക്കും ചാർജ് ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതും മന്ദഗതിയിലാകും അതിനാൽ മൊത്തത്തിൽ ഗേറ്റ് ഡിലേയ് വലുതായിരിക്കും എന്നാൽ ഇവിടെ ഞങ്ങൾ ഈ CL 2 ഭാഗങ്ങളായി വിതരണം ചെയ്തു അവ തുല്യമാണെങ്കിൽ ഞാൻ CL നെ 2 ആയും CL 2 ആയും വിഭജിച്ചുവെന്ന് പറയുക അതിനാൽ എന്റെ ഡിലേയ് ഏകദേശം പകുതി ആകും ഇവിടെ എന്റെ പരിഗണന ചാർജിംഗ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തെ സംബന്ധിച്ച് മാത്രമാണ് എനിക്ക് ലോഡ് കപ്പാസിറ്റൻസ് കുറയ്ക്കാൻ കഴിയുമെങ്കിൽ എന്റെ ചാർജിംഗ് ഡിസ്ചാർജിംഗ് സമയവും കുറയ്ക്കാം അതിനാൽ ഞങ്ങളുടെ മൊത്തം ലേഔട്ട് നോക്കാം എന്റെ ഈ NAND ഗേറ്റ് ഇവിടെയുണ്ടായിരുന്നുവെന്നും ഔട്ട്പുട്ട് പലയിടങ്ങളിലേക്കും പോവുകയാണെന്നും പറയുക ചില ഔട്ട്പുട്ടുകൾ ഇവിടെ പോകുന്നുണ്ടെന്ന് നമുക്ക് പറയാം ഇത് പോകുന്ന 3 പോയിന്റുകളായിരുന്നു എന്നാൽ മറ്റ് ഔട്ട്പുട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടെന്ന് നമുക്ക് പറയാം വളരെ അകലെ എന്നതിനർത്ഥം ഈ നീണ്ട വരികൾ ഓരോന്നും ഒരു നീണ്ട ഇന്റർകണക്ഷൻ കാലതാമസത്തിന് കാരണമാകും എന്നാണ് അതിനാൽ അവബോധപൂർവ്വം ഈ ഗേറ്റുകൾ ഒന്നുകിൽ ഇത് കൈകാര്യം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഈ നീണ്ട ഇന്റർകണക്ഷൻ ലൈനുകൾ കൈകാര്യം ചെയ്യുന്നതിനോ ചേർക്കാം പകരം നിങ്ങൾ തിരുകുന്ന ഈ നീണ്ട ലൈൻ നേരിട്ട് ഡ്രൈവ് ചെയ്യുക നിങ്ങൾ ഇത് ആവർത്തിക്കുകയും ആന്തർ കോപ്പിയും ഇവ ഓടിക്കാൻ ഉപയോഗിക്കും അനുയോജ്യമായ സ്ഥാനത്ത് കണ്ടെത്തുക ഇവിടെയല്ല നിങ്ങൾക്ക് അത് ഇവിടെയും ഇവിടെയും നന്നായി സ്ഥാപിക്കാം നമുക്ക് തിരികെ വരാം ഞാൻ വിശദീകരിച്ചതുപോലെ ഗേറ്റ് ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ ക്ലോണിംഗ് ഇനിപ്പറയുന്ന 2 സാഹചര്യങ്ങളിൽ ഡിലേയ് കുറയ്ക്കും ആദ്യം ഗേറ്റ് ഫാനൌട്ട് വലുതായിരിക്കുമ്പോൾ ഈ 2 ഗേറ്റുകൾക്കിടയിൽ മൊത്തം ഫാനൌട്ട് നമുക്ക് വിഭജിക്കാം അതിനാൽ ഫാനൌട്ട് കപ്പാസിറ്റൻസ് ഫലപ്രദമായി കുറയും പെട്ടെന്നുതന്നെ മറ്റൊരു കേസിൽ ഞാൻ വിശദീകരിച്ചാൽ ഗേറ്റ്സ് ഔട്ട്പുട്ട് 2 വ്യത്യസ്ത മേഖലകളിലേക്കോ 2 വ്യത്യസ്ത ദിശകളിലേക്കോ പോകുന്നു അതിനാൽ നിങ്ങൾക്ക് ഇവയുടെ ഒരു നല്ല പ്ലേസ്മെന്റ് കണ്ടെത്താനാകും എവിടെ വയ്ക്കണം കാരണം ഔട്ട്പുട്ട്ടുകൾ 2 വ്യത്യസ്ത കോണുകളിലേക്ക് പോകുന്നു ചിപ്പിന്റെ അതിനാൽ നിങ്ങൾ മധ്യഭാഗത്ത് സ്ഥാപിക്കുകയാണെങ്കിൽപ്പോലും വയറുകളുടെ നീളം കൂടുതലായിരിക്കാം അതിനാൽ ഗേറ്റുകളുടെ 2 കോപ്പികൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഒരെണ്ണം നിങ്ങൾ അതിനടുത്തായി വയ്ക്കുന്നു മറ്റൊന്ന് നിങ്ങൾ അതിനോട് അടുക്കുന്നു നിങ്ങൾ അത് പോലെ ക്ലോൺ ചെയ്യുന്നു ക്ലോണിംഗിന്റെ എഫ്ഫക്റ്റ് ഇപ്പോൾ നമ്മൾ കണ്ടത് 2 തുല്യമായ ഗേറ്റുകൾക്കിടയിൽ നയിക്കുന്ന കപ്പാസിറ്റൻസ് വിഭജിക്കുക എന്നതാണ് അതായത് ഔട്ട്പുട്ട് കപ്പാസിറ്റൻസ് CL വിഭജിക്കുന്നത് CL 2 ഉം CL 2 ഉം കൊണ്ട് വിഭജിക്കപ്പെട്ടു എന്നാൽ അപ്സ്ട്രീം ഗേറ്റുകളുടെ ഫാനൌട്ട് വർദ്ധിപ്പിക്കുന്നതിനുള്ള ചെലവിൽ ഇത് എന്താണ് അർത്ഥമാക്കുന്നത് നമുക്ക് ഇവിടെ വീണ്ടും നോക്കാം തുടക്കത്തിൽ ഈ ഇൻപുട്ട് A NAND ഗേറ്റിന്റെ ഈ ഒറ്റ ഇൻപുട്ടിലേക്ക് വരികയായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഇൻപുട്ട് A 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ വരണം അതിനാൽ A B എന്നീ ലൈനിന്റെ ഫാനൌട്ട് ഞാൻ ഫലപ്രദമായി വർദ്ധിപ്പിക്കുന്നു അതിനാൽ ഇപ്പോൾ എയ്ക്ക് ഒരു ഫാനൌട്ട് ഉണ്ട് ഇതാണ് ഞങ്ങൾ അപ്സ്ട്രീം ഗേറ്റുകൾ എന്ന് പരാമർശിക്കുന്നത് അതിനാൽ ക്ലോണിംഗിന് ശേഷം വരുന്ന ഈ ഇൻപുട്ടുകൾ ഈ A രണ്ടും ഓടിക്കുകയും ഈ B രണ്ടും ഓടിക്കുകയും വേണം അതിനാൽ അപ്സ്ട്രീം ഗേറ്റുകളുടെ ഫാനൌട്ട് വർദ്ധിപ്പിക്കുന്നതായി ഞങ്ങൾ പരാമർശിച്ചത് ഇതാണ് ഔട്ട്പുട്ട് 2 വ്യത്യസ്ത ദിശകളിലാണെങ്കിൽ രണ്ടാമത്തേത് നിങ്ങൾക്ക് പരാമർശിക്കാം അതിനാൽ നമുക്ക് ഗേറ്റ് ആവർത്തിക്കാം കൂടാതെ ക്ലോണുകൾ ഡൌൺസ്ട്രീം ലോജിക്കിനോട് അടുപ്പിക്കുകയും ചെയ്യാം ഡൌൺസ്ട്രീം ലോജിക് എന്നാൽ ഫാൻoutട്ട് ഭാഗത്തേക്ക് പോകുന്ന സർക്യൂട്ടുകളിൽ എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ നമുക്ക് അതിനോട് കൂടുതൽ അടുക്കാൻ കഴിയും നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം നേരത്തെ കാണിച്ച അതേ ഡിലേയ് ഡിലേയ് മോഡൽ ഞങ്ങൾ ഉപയോഗിക്കും അതിനാൽ ഞങ്ങൾ ഇതുപോലുള്ള ഒരു ഉദാഹരണം എടുക്കുന്നു അവിടെ എനിക്ക് ഒരു NAND ഗേറ്റ് ഉണ്ട് അത് മൊത്തം 5 ലോഡ് കപ്പാസിറ്റൻസുള്ള 5 ഫാനൌട്ട് കണക്ഷനുകൾ ഓടിക്കുന്നു അതിനാൽ ഇത് B ഞങ്ങൾ എടുത്ത ഗേറ്റ് സൈസ് B നമുക്ക് ഗേറ്റ് സൈസ് B ക്ക് ഒരിക്കൽ കൂടി നോക്കാം 5 ഫെംറ്റോഫറാഡ് കപ്പാസിറ്റൻസിനായി ഡിലേയ് 45 പിക്കോസെക്കൻഡ് ആയിരുന്നു അതിനാൽ ഈ കേസിലെ ഡിലേയ് 45 പിക്കോ സെക്കൻഡുകളാണ് ഇപ്പോൾ നമ്മൾ ക്ലോണിംഗ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ വിഭജിക്കുകയാണ് അതിനാൽ അവയിലൊന്ന് VAയും VBയുമാണെന്ന് നമുക്ക് പറയാം ഈ ഗേറ്റുകളെല്ലാം മുമ്പ് ഒരേ വലുപ്പത്തിലായിരുന്നു എന്നത് ശരിയല്ല അതിനാൽ നമ്മൾ അങ്ങനെ ആയിരിക്കാം അതിനാൽ ഉദാഹരണത്തിന് ഇവിടെ ഈ VA 2 ലോഡ് ഓടിക്കുന്നു VB 3 ലോഡ് ഓടിക്കുന്നു കാരണം ഇവിടെ ലോഡ് കൂടുതലാണ് ഞങ്ങൾ ഇവിടെ ഒരു വലിയ ഗേറ്റ് ഉപയോഗിക്കുന്നു ലോഡ് കുറവായതിനാൽ ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ ഗേറ്റ് ഉപയോഗിക്കുന്നു അതിനാൽ VA കപ്പാസിറ്റൻസ് 2 VB കപ്പാസിറ്റൻസ് 3 നമുക്ക് VA ലോഡ് 2 നോക്കാം അത് 30 ഉം VB കപ്പാസിറ്റൻസ് 3 33 ഉം ആണ് ഇത് 30 ആയിരിക്കും ഇത് 33 ആകും അതിനാൽ ഇപ്പോൾ 45 ന് പകരം ഇവിടെ 30 ലേക്കും ഇവിടെ 33 ലേക്കും ഡിലേയ് വരുന്നു ഡിലേയ് കുറയ്ക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു a b യുടെ ഫാനൌട്ടുകൾ വർദ്ധിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇതിന് ഒരു അധികമുണ്ടാകും കൂടാതെ ഫാനൌട്ട് b ക്ക് അധിക ഫാനൌട്ടും ഉണ്ടായിരിക്കും ഡൌൺസ്ട്രീം കപ്പാസിറ്റൻസ് വലുതായിരിക്കുമ്പോൾ ക്ലോണിംഗിനേക്കാൾ മികച്ചതായിരിക്കും ബഫറിംഗ് ഇവിടെ നിങ്ങൾ കാണുന്നത് കാരണം ബഫർ അപ്സ്ട്രീം ഗേറ്റുകളുടെ ഫാനൌട്ട് കപ്പാസിറ്റൻസ് വർദ്ധിപ്പിക്കുന്ന ഞാൻ പറയട്ടെ എനിക്ക് കുറച്ച് ലോഡ് ഓടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ലോഡ് വലുതാണെന്ന് കരുതുക ഞാൻ ഒരു വലിയ കപ്പാസിറ്റൻസ് ഓടിക്കുന്നു ഞാൻ പറയുന്നത് ഇതാണ് ക്ലോണിംഗിന് പകരം ബഫറിംഗ് ഒരു മികച്ച ഓപ്ഷനാണ് അതിനാൽ ക്ലോണിംഗ് എന്ന് ഞങ്ങൾ പറയുന്നത് വഴി ഞങ്ങൾ ലോഡ് പങ്കിടുന്നു ചില ലോഡ് ഞങ്ങൾ ഇവിടെ പങ്കിടുന്നു ഔട്ട്പുട്ട് വിഭജിക്കുകയും ചെയുന്നു നിങ്ങൾ ചില ലോഡ് കപ്പാസിറ്റൻസ് വളരെ വലുതായി ഓടിക്കുന്ന സന്ദർഭങ്ങളിൽ ബഫറിന്റെ ഉപയോഗം മികച്ചതായിരിക്കുമെന്ന് ഞങ്ങൾ പറയുന്നു ബഫറിംഗിന്റെ പ്രയോജനം ഇൻപുട്ട് ഭാഗത്ത് നിങ്ങൾ ലോഡ് കപ്പാസിറ്റൻസിന്റെ ഫാനൌട്ട് വർദ്ധിപ്പിക്കുന്നില്ലെന്ന് പറയുന്നത് ഈ കപ്പാസിറ്റൻസ് ഏറ്റവും കുറഞ്ഞ കപ്പാസിറ്റൻസായി തുടരുന്നു എന്നാൽ ഇവിടെ നിങ്ങൾ ഇത് പോലെ ഉപയോഗിക്കുന്നുവെങ്കിൽ ഇത് C ആണെങ്കിൽ ഇവിടെ ഫലപ്രദമായ കപ്പാസിറ്റൻസ് രണ്ട് മടങ്ങ് C ആകും കാരണം നിങ്ങൾ ഇപ്പോൾ 2 ഗേറ്റുകൾ ഓടിക്കുന്നുണ്ടോ ഇതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് കാരണം ബഫറുകൾ അപ്സ്ട്രീം ഗേറ്റുകളുടെ ഫാനൌട്ട് കപ്പാസിറ്റൻസ് വർദ്ധിപ്പിക്കുന്നില്ല എന്നാൽ തീർച്ചയായും പ്ലെയ്സ്മെന്റ് ഡ്രൈവുചെയ്ത ക്ലോണിംഗ് വളരെ ശക്തമായ ഒരു ആശയമാണ് ചിപ്പിന്റെ മറ്റെവിടെയെങ്കിലും ചില ഫാനൌട്ട് ടാർഗെറ്റുകൾ ഉണ്ടെങ്കിൽ ചിപ്പിന്റെ മറ്റേതെങ്കിലും ഭാഗം ഡ്രൈവിംഗ് ഗേറ്റിന്റെ ഒരു ക്ലോൺ അടുത്ത് സ്ഥാപിക്കാനാകും അതിലേക്ക് ഇവയിൽ പ്ലെയ്സ്മെന്റ് ഡ്രൈവ് ക്ലോണിംഗ് എന്ന് വിളിക്കുന്നു ഞങ്ങൾ ക്ലോണിംഗ് ചെയ്യുന്നത് ലോഡുകളോ മറ്റ് കാര്യങ്ങളോ നോക്കിയല്ല അവർ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ നോക്കുന്നു നിങ്ങൾ ഇവിടെ ഒരു ക്ലസ്റ്റർ കാണുന്നുവെങ്കിൽ നിങ്ങൾ ഒരു ക്ലോൺ സ്ഥാപിക്കുന്നു ആ ക്ലസ്റ്ററിന് സമീപം ക്ലോണിന്റെ ഒരു പകർപ്പ് വയ്ക്കുക മറ്റേതെങ്കിലും പോയിന്റുകൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതു പോലെ ക്ലോണിന്റെ മറ്റൊരു പകർപ്പ് സ്ഥാപിക്കുക നമുക്ക് ഇവിടെ ഒരു ഉദാഹരണം എടുക്കാം 5 സിഗ്നലുകൾ ഓടിക്കുന്ന ഒരു ഗേറ്റ് ഇവിടെയുണ്ടെന്ന് നമുക്ക് പറയാം d e f g h ഇവിടെ d e f ഒരുമിച്ച് അടച്ചിട്ടുണ്ടെന്ന് പറയാം v ക്ക് അടുത്താണ് പക്ഷേ g h എന്നിവ അൽപ്പം അകലെയാണ് അതിനാൽ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഒരു ഗേറ്റിനെ ക്ലോൺ ചെയ്യുകയും ഈ പുതിയ കോപ്പി v ഡാഷ് നിങ്ങൾ അത് g h ന് അടുത്ത് വയ്ക്കുകയും ചെയ്യുന്നു ഞങ്ങൾ അത് v യ്ക്ക് സമീപം സൂക്ഷിക്കുന്നില്ല ഇത് കുറച്ചുകൂടി സൂക്ഷിക്കുക ഒരുപക്ഷേ ഈ വയറുകൾ കൂടുതൽ നീളമുള്ളതാകാം പക്ഷേ ഈ ഡിലേയ് വളരെ കുറവായിരിക്കും ഇപ്പോൾ ഫാനിൻ ട്രീ പുനർരൂപകൽപ്പന ചെയ്യുന്ന മറ്റ് വിദ്യകൾ ട്രീ ൽ ഫാൻ പുനർരൂപകൽപ്പന ചെയ്യുന്നത് അർത്ഥമാക്കുന്നത് ഫാനിൻ കണക്ഷൻ ഉള്ളപ്പോഴെല്ലാം ആണ് നമുക്ക് ഇതുപോലൊരു ഉദാഹരണം എടുക്കാം നമുക്ക് ഇതുപോലൊരു ഗേറ്റ് നെറ്റ്ലിസ്റ്റ് ഉണ്ടെന്ന് കരുതുക ഇവിടെ ഗേറ്റിന്റെ തരം പ്രധാനമല്ല 2 ലെവലിൽ 3 ഗേറ്റുകൾ ഉണ്ട് abcd ഇൻപുട്ടുകളാണ് ഇതിന്റെ യഥാർത്ഥ എത്തിച്ചേരൽ സമയം ഈ ഇൻപുട്ടുകൾ 4 3 1 0 കാണിച്ചിരിക്കുന്നു അതായത് ആദ്യ ഇൻപുട്ട് വൈകിയാണ് എത്തുന്നത് അവസാന ഇൻപുട്ട് നേരത്തെ എത്തുന്നു ഇപ്പോൾ ഞാൻ ഈ ഗേറ്റ് ഇതുപോലെ നടപ്പിലാക്കുകയാണെങ്കിൽ 1 ഗേറ്റുകളുടെ ഡിലേയ് സൂചിപ്പിക്കുന്നു ഞങ്ങൾ ഈ പ്രവർത്തനം ഇതുപോലെ നടപ്പിലാക്കുകയാണെങ്കിൽ 6 മിനിറ്റ് സമയത്തിന് ശേഷം മാത്രമേ ഔട്ട്പുട്ട് ലഭ്യമാകൂ കാരണം ഒരു ഇൻപുട്ട് a 4 ൽ മാത്രമാണ് വരുന്നത് അപ്പോൾ 1 1 6 എന്നാൽ ഞാൻ ഇത് ഇങ്ങനെ ചെയ്യുന്നുവെന്ന് കരുതുക ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഒരു ലോജിക് ഡിസൈനർക്കായി ലോജിക് ഡിസൈനർ പറയുന്നത് ഇത് ഒരു മോശം ഡിസൈൻ ആണെന്ന് ഇവിടെ എനിക്ക് 2 ലെവൽ ഉണ്ട് അതായത് ഡിലേയ് 2 ആയിരുന്നു 3 ലെവൽ ഉണ്ട് അതിനാൽ ഡിലേയ് മൂന്ന് ആയിരിക്കണം എന്നാൽ ഈ സ്റ്റാറ്റിക് കേസുകളിൽ ഡിലേയ് 3 ആയിരിക്കാം എന്നാൽ നിങ്ങൾ എത്തിച്ചേരുന്ന സമയം നോക്കുകയാണെങ്കിൽ സമയത്തെ സംബന്ധിച്ചിടത്തോളം ഈ തിരിച്ചറിവ് നല്ലതാണ് ഈ മന്ദഗതിയിലുള്ള ഇൻപുട്ട് ഒരു ഗേറ്റ് ഡിലേയ് മാത്രമാണ് നേരിടുന്നത് അതിനാൽ ഇപ്പോൾ ഔട്ട്പുട്ട് 5 കൊണ്ട് തയ്യാറാകും കാരണം 1 ഉം 1 ഉം ഈ ഔട്ട്പുട്ട് 2 3 2 എന്നിവയിൽ തയ്യാറാകും ഈ ഔട്ട്പുട്ട് 4 ഓടെ തയ്യാറാകും അതിനാൽ ഈ ഔട്ട്പുട്ട് 5 ന് തയ്യാറാകും അതിനാൽ ഇവിടെ ഔട്ട്പുട്ട് സമയം 6 ന് വരുന്നു എന്നാൽ ഈ റീസ്ട്രക്ച്ചറിങ് ശേഷം നിങ്ങളുടെ യഥാർത്ഥ ഔട്ട്പുട്ട്ടിന്റെ വരവ് സമയം 5 ആയിത്തീരുന്നു അതിനാൽ ഇതാണ് നേട്ടം അതിനാൽ ഫാനിൻ പുനസംഘടന ഇതാണ് ഗേറ്റുകളുടെ ഇൻപുട്ടിന് നിരവധി വരികൾ വരുമ്പോഴെല്ലാം ലളിതമായി ബൂലിയൻ നിയമങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നെറ്റ്വർക്ക് പുനർരൂപകൽപ്പന ചെയ്യാൻ കഴിയും അതിനാൽ നിങ്ങൾ വേഗത കുറഞ്ഞ റൂട്ട് ലഭിക്കുന്ന ഒരു സ്ഥലത്ത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും വേഗത കുറഞ്ഞ സിഗ്നൽ ലൈനുകൾ നിങ്ങൾ ചെയ്തതുപോലുള്ള ഔട്ട്പുട്ട്ടിലേക്ക് അതുപോലെ ഔട്ട്പുട്ട് വശത്തിനായി നമുക്ക് ചെയ്യാൻ കഴിയും ഇൻപുട്ട് ലൈനുകൾ മാത്രമല്ല വ്യത്യസ്ത സെഗ്മെന്റുകളിലുടനീളം നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ കഴിയുന്ന ഔട്ട്പുട്ട് ലോഡ് കപ്പാസിറ്റൻസ് പോലെ നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം ആദ്യം നമുക്ക് വീണ്ടും സ്ലൈഡിലേക്ക് മടങ്ങാം നമുക്ക് ആദ്യം ഉദാഹരണം നോക്കാം നിങ്ങൾക്ക് ഇതുപോലൊരു സർക്യൂട്ട് ഉണ്ടെന്ന് കരുതുക ഇവിടെ ഗേറ്റ് ഉണ്ടായിരുന്നു 1 ന്റെ ഡിലേയ് 2 ബഫറുകൾ y1 y2 എന്നിവ ഉണ്ടായിരുന്നു നമുക്ക് ഈ പാത പറയാം ഞാൻ അതിനെ പാത്ത് 1 എന്ന് വിളിക്കുന്നു ഈ പാതയെ ഞാൻ പാത 2 എന്ന് വിളിക്കുന്നു ഈ ബഫർ ഈ 2 വരികൾ ഓടിക്കുന്നു ഈ ബഫർ ഈ ലൈൻ ഓടിക്കുന്നുവെന്ന് നമുക്ക് പറയാം എന്നാൽ ഇവിടെ ഞാൻ ചെയ്യുന്നത് ഈ വരികൾ ആത്യന്തികമായി ഒരേ സോഴ്സ്സിൽ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് പറയാം അതേ ഫാനൌട്ട് ഈ 1 2 3 എന്നിവയിൽ ബഫർ ഉപയോഗിച്ച് തകർന്നിരിക്കുന്നു ഇപ്പോൾ ഈ വരികളിലൊന്ന് സങ്കൽപ്പിക്കുക എനിക്ക് ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുപോലെ നീക്കാൻ കഴിയും അതിനാൽ ഞാൻ ഇത് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ ബഫർ ഇനി ഇവിടെ ആവശ്യമില്ല ഞാൻ കാണിക്കുന്നില്ല ഇത് മറ്റ് സ്ഥലങ്ങളിലേക്കും പോകാം അതിനാൽ പാതകളിലൊന്ന് ബഫറുകളിൽ ഒന്ന് ഇല്ലാതാക്കപ്പെട്ടേക്കാം ഇപ്പോൾ അങ്ങനെയായിരിക്കാം ആ പാത 1 ചെറിയ പാതയായിരുന്നു ഞങ്ങൾ അത് വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നു അതിനാൽ ഇത് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമായിരിക്കാം ഇത് അതിനാൽ നമുക്ക് സ്ലൈഡിലേക്ക് മടങ്ങാം അതിനാൽ ഉദാഹരണത്തിൽ നമ്മൾ കണ്ടത് ഈ y1 ആവശ്യമാണ് കാരണം പാത്ത് 1 ന്റെ ലോഡ് കപ്പാസിറ്റൻസ് വലുതാണ് ഈ പാത 1 ന്റെ ലോഡ് കപ്പാസിറ്റൻസ് വലുതാണ് നിങ്ങൾ അത് കാണിക്കുന്നത് 2 ഫെലോകളെ 2 ഇൻപുട്ടുകളെയാണ് അതിനാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ബഫർ ആവശ്യമാണ് അതിനാൽ ഫാനൌട്ട് ട്രീ പുനർരൂപകൽപ്പന ചെയ്തുകൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്തത് പാത്ത് 1 ന്റെ ലോഡ് കപ്പാസിറ്റൻസ് ഞങ്ങൾ കുറയ്ക്കുന്നു അതിനാൽ ബഫർ y1 ഒഴിവാക്കി അതിനാൽ ഇത് ഞങ്ങൾ ഇവിടേക്ക് മാറ്റി ഈ ബഫർ ഇതിനകം ഉണ്ടായിരുന്നു അതിനാൽ ഇത് ഇതിനകം ഡ്രൈവിംഗ് ആയിരുന്നു അതിനാൽ ഒരു പ്രശ്നവുമില്ല എന്നാൽ ഈ ബഫർ നിങ്ങൾക്ക് ഒഴിവാക്കാനാകുമോ എന്നാൽ പാത്ത് 2 ന്റെ ഈ വർദ്ധിച്ച കാലതാമസം നമുക്ക് അംഗീകരിക്കാൻ കഴിയും അത് നിർണായക പാത മാത്രമല്ലെന്ന് കരുതുക അതിനാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പരിവർത്തനം നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായും രണ്ടാമത്തെ ബഫറിലെ ലോഡ് വർദ്ധിക്കും അതിനാൽ പാത 2 ലെ കാലതാമസം വർദ്ധിക്കും പക്ഷേ ഈ പാത 2 ന് മതിയായ പോസിറ്റീവ് സ്ലാക്കുകൾ ഉണ്ടായിരിക്കാം അതിനാൽ ഇത് തീർത്തും നിർണായകമായിരുന്നു അതിനാൽ ഡിലേയ്യിൽ ഈ അധിക വർദ്ധനവുണ്ടായെങ്കിലും ഇത് ഇപ്പോഴും പോസിറ്റീവ് സ്ലാക്കുകളിൽ നിലനിൽക്കുന്നു അതിനാൽ ഇത് സ്വീകാര്യമാണ് സ്വാപ്പിങ് കമ്മ്യൂട്ടേറ്റീവ് പിൻ എന്നതിനർത്ഥം നിരവധി ഗേറ്റ്സ് ഉണ്ട് അവിടെ നിങ്ങൾ ചില പിൻ മാറ്റിയാൽ അവ പ്രവർത്തനപരമായി തുല്യമായി തുടരും നമുക്ക് ചില ഉദാഹരണങ്ങൾ എടുക്കാം നമുക്ക് ഒരു 3 ഇൻപുട്ട് AND ഗേറ്റ് എടുക്കാം ABC ഔട്ട്പുട്ട് AB C ഇപ്പോൾ നിങ്ങൾ CAB ഉപയോഗിച്ച് ഗേറ്റ് മാറ്റിയാൽ അത് അല്ലെങ്കിൽ C B A അതിനാൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും ഇത് എളുപ്പത്തിൽ തെളിയിക്കാൻ നിങ്ങൾക്ക് കമ്മ്യൂട്ടേറ്റീവ് നിയമം ഉപയോഗിക്കാം അതുപോലെ അടിസ്ഥാന കവാടങ്ങളെല്ലാം പ്രകൃതിയിൽ പരിവർത്തനമുള്ളവയാണ് NAND അല്ലെങ്കിൽ NOR എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ അവയെല്ലാം പ്രകൃതിയിൽ കമ്മ്യൂട്ടേറ്റീവ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഇൻപുട്ടുകൾ കൈമാറാൻ കഴിയും ഔട്ട്പുട്ട് ഫംഗ്ഷൻ മാറുകയില്ല അവ പ്രവർത്തനപരമായി സമാനമാണ് പക്ഷേ എനിക്ക് മറ്റ് ചില പ്രവർത്തന ബ്ലോക്കുകൾ ഉണ്ടെന്ന് കരുതുക നമുക്ക് മൾട്ടിപ്ലക്സർ പറയാം എനിക്ക് ഒരു മൾട്ടിപ്ലക്സർ ഉണ്ട് എനിക്ക് A B ഉണ്ട് ഇവിടെ സെലക്ട് ലൈൻ ഉണ്ട് ഇതാണ് ഔട്ട്പുട്ട് ഇപ്പോൾ ഞാൻ എന്റെ ഇൻപുട്ടുകൾ സ്വാപ്പ് ചെയ്യുന്നുവെന്ന് കരുതുക ഞാൻ ഇത് B ആയി ഉണ്ടാക്കുന്നു ഞാൻ ഇത് A ആയി ഉണ്ടാക്കുന്നു ഈ ഫംഗ്ഷൻ ഇതിന് തുല്യമാകില്ല ഇത് തുല്യമല്ല കാരണം S 0 ന് തുല്യമാണെങ്കിൽ ഈ സാഹചര്യത്തിൽ A തിരഞ്ഞെടുത്തു പക്ഷേ ഇപ്പോൾ ഇവിടെ B തിരഞ്ഞെടുക്കപ്പെടും അതിനാൽ നിങ്ങൾക്ക് ഈ പിൻസ് സ്വാപ്പ് ചെയ്യാൻ കഴിയാത്ത ചില പ്രവർത്തന ബ്ലോക്കുകളുണ്ട് കൂടാതെ സ്വാപ്പ് ചെയ്യാൻ കഴിയുന്ന പിൻകളെ കമ്മ്യൂട്ടേറ്റീവ് പിൻ എന്ന് വിളിക്കുന്നു എല്ലാ അടിസ്ഥാന ഗേറ്റ്സ്സിനും പിന്നുകൾ എല്ലാം സഞ്ചാരയോഗ്യമാണ് നിങ്ങൾക്ക് അവയെല്ലാം എളുപ്പത്തിൽ മാറ്റാനാകും അതിനാൽ നിങ്ങൾക്ക് കമ്മ്യൂട്ടേറ്റീവ് പിൻകൾ മാറ്റാൻ കഴിയുമെന്ന് ഈ രീതി പറയുന്നു ഇപ്പോൾ നിങ്ങൾ ഗേറ്റുകളുടെ തലത്തിൽ നിരീക്ഷിച്ച മറ്റൊരു കാര്യം നിങ്ങൾ സ്വാപ്പ് ചെയ്താലും ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന് ഇത് കാണുന്നു നിങ്ങൾ ഒരു ട്രാൻസിസ്റ്റർ ലെവൽ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ ഒരു ലളിതമായ ഉദാഹരണം 3 ഇൻപുട്ട് NAND ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരുന്നുവെന്ന് പറയുക അതിനാൽ ഒരു ട്രാൻസിസ്റ്റർ ലെവൽ സർക്യൂട്ട് പുൾ അപ്പ് ഉൾക്കൊള്ളുന്നു 3 p ടൈപ്പ് ട്രാൻസിസ്റ്ററുകൾ ഉണ്ടാകും നമുക്ക് പറയാം ABC പുൾ ഡൌൺ ചെയുമ്പോൾ 3 സമാന്തര ട്രാൻസിസ്റ്ററുകൾ n ടൈപ്പ് ഉണ്ടായിരിക്കാം ഇപ്പോൾ ഈ ഔട്ട്പുട്ട് ചില ലോഡ് കപ്പാസിറ്റൻസ് നയിക്കുന്നു CL ഇത് VDD ആണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ ഗേറ്റ്സ് A B C എന്നിവയെ സംബന്ധിച്ചിടത്തോളം ഈ ഗേറ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണെന്നാണ് ഔട്ട്പുട്ട് f ആണെന്ന് പറയാം ഇത് f ആണ് എന്നാൽ ഈ A എപ്പോഴാണ് മാറുന്നത് എന്ന് നിങ്ങൾ കാണും B യും C യും ഇതിനകം 0 ഉം 0 ഉം A 0 ഉം A യും A ഉം 1 ഉം അത് 0 ആയി മാറുന്നു എന്ന് കരുതുക ഇപ്പോൾ ഇത് നടത്തുന്നു ഇപ്പോൾ A നടത്തുമ്പോൾ അതിനാൽ ഇതാണ് പാത ഇപ്പോൾ മറ്റൊരു കേസ് ഞാൻ C യെക്കുറിച്ച് പറയുമ്പോൾ ഈ AB ഇതിനകം നടത്തുകയായിരുന്നു ഇപ്പോൾ ഈ പോയിന്റും ഈ പോയിന്റും തമ്മിലുള്ള ഡിലേയ് ഞാൻ പരിഗണിക്കേണ്ടതുണ്ട് അതിനാൽ നെറ്റ് ഡിലേയ് അല്ലെങ്കിൽ ഈ സിഗ്നൽ പ്രചരണ ഡിലേയ് എല്ലാം VDD മുതൽ ഇവിടേക്ക് വരേണ്ടതില്ല ചില സന്ദർഭങ്ങളിൽ ഞാൻ മുഴുവൻ പാതയും ചില കേസുകൾ ചെറിയ വഴികളും സ്വീകരിക്കേണ്ടതായി വന്നേക്കാം അതിനാൽ പിന്നുകളിലുടനീളമുള്ള ഡിലേയ് ഒരു ഗേറ്റിന് അല്പം വ്യത്യസ്തമായിരിക്കും ഇതാണ് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് അതിനാൽ ഇവിടെ നമ്മൾ പറയുന്നത് യഥാർത്ഥ ട്രാൻസിസ്റ്റർ ലെവൽ നെറ്റ്ലിസ്റ്റിൽ വളരെ പ്രവർത്തനക്ഷമമായ കമ്മ്യൂട്ടേറ്റീവ് പിൻകൾക്ക് വ്യത്യസ്ത ഡിലേയ് ഉണ്ടാകാം എന്നതാണ് അതിനാൽ തംബ്ന്റെ നിയമം എന്തെന്നാൽ ഒരു സിഗ്നൽ വന്നാൽ നിങ്ങൾ അത് ഒരു ഇൻപുട്ട് പിൻയിലേക്ക് അസൈൻ ചെയ്യുന്നു എന്നാൽ ഒരു സിഗ്നൽ നേരത്തെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് സാവധാനത്തിലുള്ള ഒരു പിൻയിലേക്ക് നൽകാം ഇത് ലളിതമായ ഉദാഹരണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇവ ഇൻപുട്ടുകളുടെ കാലതാമസം സൂചിപ്പിക്കുന്നു ഇവ 2 ഇൻപുട്ട് ഗേറ്റുകൾ പോലെ രണ്ട് കാലതാമസവും 1 ഉം 1 ഉം ആണ് ഇവിടെ ഇത് 1 ഉം 2 ഉം ആണ് ഇവയാണ് അറൈവൽ സമയം അതിനാൽ ഈ തിരിച്ചറിവിനായി ഔട്ട്പുട്ട് അറൈവൽ സമയം 2 2 1 5 ആയിരിക്കും എന്നാൽ ഞാൻ ഇൻപുട്ടിൽ ഒരു കമ്മ്യൂട്ടേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഇവിടെ c b ഇവിടെ എന്നിവ കൊണ്ടുവരുന്നു അപ്പോൾ 0 1 0 നേരത്തെയാണ് അതിനാൽ 2 ആകുമ്പോൾ ഇത് തയ്യാറാകും 2 3 ഇത് തയ്യാറാകും അതിനാൽ 5 ൽ നിന്ന് ഞങ്ങൾ ഡിലേയ് 3 ആയി കുറച്ചു ഡിലേയ് മെച്ചപ്പെടുത്തുന്നതിനായി നിങ്ങൾക്ക് ഇൻപുട്ടുകൾ സമർപ്പിച്ച് ക്രമീകരിക്കാൻ കഴിയുന്ന ഒരു തരം സാങ്കേതികത കൂടിയാണിത് അവസാനത്തേത് ഗേറ്റ് ഡികോമ്പോസിഷൻ എന്നാൽ ബൂളിയൻ ആൾജിബ്ര യുടെ ചില നിയമങ്ങളുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഗേറ്റുകൾ ചെറിയ ഗേറ്റുകളായി ഡീകമ്പോസ് ചെയ്യാൻ കഴിയും കാരണം ഇരട്ടിയാണ് ഒന്ന് തീർച്ചയായും നിങ്ങൾ ചെറിയ ഗേറ്റുകളായി വിഭജിച്ചാൽ മൊത്തത്തിലുള്ള ഡിലേയ് ആകാം കുറവ് ഒരു വലിയ ഗേറ്റ്സ്സിൽ നിന്നും നിങ്ങളുടെ MOS ലെവൽ ട്രാൻസിസ്റ്റർ ലെവൽ നെറ്റ്വർക്ക് വളരെ സങ്കീർണമായേക്കാം കൂടുതൽ ശേഷി ഇഫക്റ്റുകൾ ഉണ്ടാകും ഡിലേയ് വലുതായിരിക്കും എന്നാൽ നിങ്ങൾക്ക് അത് ചെറിയ ഗേറ്റ്സ്സായി തകർക്കാൻ കഴിയുമെങ്കിൽ ചില കേസുകളിൽ പ്രയോജനകരമാകും ഈ സ്ലൈഡ് ഒരു ലളിതമായ ഉദാഹരണം കാണിക്കുന്നു 2 ലെവലുകൾ A N D അല്ലെങ്കിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് കരുതുക ഇപ്പോൾ നമുക്ക് 2 ലെവൽ A N D അല്ലെങ്കിൽ 2 ലെവൽ NAND NAND ന് തുല്യമാണെന്ന് അറിയാം അതിനാൽ ഇത് ഇതിന് തുല്യമാണ് അതിനാൽ എനിക്ക് ഇതുപോലുള്ള ഒരു തിരിച്ചറിവ് ലഭിക്കാൻ കഴിയും ഇവിടെ ഞങ്ങൾക്ക് മൂന്ന് 2 ഇൻപുട്ട് NAND ഗേറ്റുകളും ഒരു 3 ഇൻപുട്ട് NAND ഗേറ്റുകളും ആവശ്യമാണ് എന്നാൽ ഈ 3 ഇൻപുട്ട് NAND ഗേറ്റുകൾ നിങ്ങൾക്ക് ഇത് 2 ഇൻപുട്ട് AND തുടർന്ന് 2 ഇൻപുട്ട് NAND എന്നിങ്ങനെ വിഭജിക്കാം അതിനാൽ ഇവിടെ എനിക്ക് എല്ലാ ഗേറ്റുകളും 2 ഇൻപുട്ടുകൾ മാത്രമുള്ള ബദൽ തിരിച്ചറിവ് ഉണ്ട് അതിനാൽ ഇത്തരത്തിലുള്ള ഒരു ട്രാൻസ്മിഷൻ ഡിലേയ് ബാധിച്ചേക്കാം കാരണം ഈ സാഹചര്യത്തിൽ 2 ഇൻപുട്ട് ഗേറ്റിന്റെ ഡിലേയ്യും 3 ഇൻപുട്ട് ഗേറ്റിന്റെ ഡിലേയ്യും ഒന്നായിരിക്കില്ല അവ വ്യത്യസ്തമായിരിക്കും എന്നാൽ ഇവിടെ ഞങ്ങൾ യൂണിഫോം കാണാൻ ശ്രമിക്കുന്നു ബൂലിയൻ റീസ്ട്രക്ച്ചറിങ് എന്നത് ബൂളിയൻ ആൾജിബ്ര അല്ലെങ്കിൽ സ്വിച്ചിങ് ആൾജിബ്ര നിയമങ്ങൾ ഉപയോഗിച്ച് പൊതുവായ ചില ഉപപ്രയോഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഒരു സാങ്കേതികതയാണ് കൂടാതെ അടുത്ത സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന ഒരു ഉദാഹരണമുണ്ട് അത് ബൂലിയൻ ആൾജിബ്ര യുടെ വിതരണ നിയമം ഉപയോഗിക്കുന്നു അത് a അല്ലെങ്കിൽ b c a അല്ലെങ്കിൽ b a അല്ലെങ്കിൽ c എന്നിവയ്ക്ക് തുല്യമാണെന്ന് പറയുന്നു സമയം മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ഒരു വിതരണ നിയമം ഉദാഹരണത്തിൽ നമ്മൾ 2 ഫംഗ്ഷനുകൾ എടുക്കുന്നു ഒന്ന് x എന്നത് a അല്ലെങ്കിൽ b c ന് തുല്യമാണ് y എന്നത് b അല്ലെങ്കിൽ c ന് തുല്യമാണ് നമുക്ക് ഇതിലേക്ക് മടങ്ങാം നമുക്ക് ആദ്യം ഈ പ്രവർത്തനങ്ങൾ നോക്കാം a അല്ലെങ്കിൽ b c തിരിച്ചുവിളിക്കാൻ ഉപയോഗിക്കുന്ന പ്രവർത്തനമാണ് ഈ x ഇപ്പോൾ വിതരണ നിയമം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് a അല്ലെങ്കിൽ b ആയി a അല്ലെങ്കിൽ c ആയി എഴുതാം അതുപോലെ y എന്നത് b അല്ലെങ്കിൽ c ആയിരുന്നു അതിനാൽ വിതരണ നിയമം ഉപയോഗിച്ച് നിങ്ങൾക്ക് a അല്ലെങ്കിൽ b a അല്ലെങ്കിൽ c എഴുതാം അതിനാൽ ഇത് പോലെ തന്നെ ഞങ്ങൾ നടപ്പിലാക്കേണ്ടതാണ് ഇത് a അല്ലെങ്കിൽ b പോലെ ഇത് a അല്ലെങ്കിൽ c നടപ്പിലാക്കുന്നു ഇത് b അല്ലെങ്കിൽ c നടപ്പിലാക്കുന്നു അതിനാൽ ആവശ്യമായ OR ഔട്ട്പുട്ട്ടുകൾ വെറുതെ അമർത്തുന്നതിലൂടെ നിങ്ങൾക്ക് x ഉം y ഉം ലഭിക്കും ഇൻപുട്ടുകളുടെ ഇൻപുട്ട് അറൈവൽ സമയം 4 1 ഉം 2 ഉം ആണെന്ന് ഞങ്ങൾ കരുതുകയാണെങ്കിൽ a വരുന്നത് 4 b 1 c 2 4 1 2 അതിനാൽ ഡിലേയ് 4 1 1 ആയിരിക്കും 6 6 എന്നീ രണ്ട് കേസുകൾക്കും പരമാവധി എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ഈ വഴി ഉപയോഗിക്കുന്നില്ലെന്ന് കരുതുക ഇതുപോലുള്ള നേരിട്ടുള്ള നടപ്പാക്കൽ ഞങ്ങൾ ഉപയോഗിക്കുന്നു a അല്ലെങ്കിൽ bc ab അല്ലെങ്കിൽ c അതായത് നിങ്ങൾ AND ഒന്നാം തലത്തിലും OR രണ്ടാമത്തെ തലത്തിലും ഉപയോഗിക്കുന്നു അതിനാൽ a നേരിട്ട് വരുന്നതിനാൽ നിങ്ങൾ കാണുന്നു അതിനാൽ ഇവിടെ ഡിലേയ് 5 ആയിരിക്കും പക്ഷേ എന്തുകൊണ്ട് ഇപ്പോഴും 6 4 ന് a വരുന്നതിനാൽ നിങ്ങൾക്ക് രണ്ട് ഗേറ്റ് ഡിലേയ് ആവശ്യമാണ് അതിനാൽ അവയിലൊന്നെങ്കിലും നമുക്ക് വേഗത്തിലാക്കാൻ കഴിയും ഇതുപയോഗിച്ച് നിങ്ങൾക്ക് നെറ്റ്ലിസ്റ്റ് പുനക്രമീകരിക്കാൻ കഴിയുന്ന നിരവധി സാങ്കേതിക വിദ്യകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതിനാൽ ചില സമയങ്ങളിൽ പ്രത്യേകതകൾ മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾക്ക് പറയാം വിശകലനം ധാരാളം സമയ ആവശ്യകതകൾ ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തുന്നു അത് പാലിക്കപ്പെട്ടിട്ടില്ല ഞങ്ങൾക്ക് നിരവധി മാറ്റങ്ങളും ട്രാൻസ്മിഷനുകളും വരുത്തേണ്ടി വന്നേക്കാം സർക്യൂട്ട് നെറ്റ്ലിസ്റ്റ് പ്ലെയ്സ്മെന്റ് അതിനാൽ സാധാരണയായി ഉപയോഗിക്കുന്ന ചില സാങ്കേതികതകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു നമ്മളുടെ അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ ഇത് തുടരും മൊത്തത്തിലുള്ള പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഡ്രൈവൻ ഫ്ലോ നമ്മൾ ഇതുവരെ പഠിച്ചു ഒരു സംയോജിത അർത്ഥത്തിൽ അത് എങ്ങനെ കാണപ്പെടുന്നു എന്നതും നോക്കാം